ഇപ്പോൾ നമുക്ക് ഈ ആശയം രണ്ട് അളവുകളിൽ വിപുലീകരിക്കാം ജ്യാമിതി വീണ്ടും വളരെ നല്ലതാണെന്ന് ഞാൻ അർത്ഥമാക്കുന്ന ഉത്തരം അതിനാൽ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് രണ്ട് മാനങ്ങളിൽ ഒന്നാമതായി ഒരു മാനത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് ഡിസ്ക്രിറ്റൈസ് ചെയ്യാനുള്ള ഭാരം ലൈൻ സെഗ്മെന്റുകളാണ് 2D യിൽ നമുക്ക് ഒരു ചോയ്സ് ഉണ്ട് അതിനാൽ മൂലകങ്ങൾ ഈ ത്രികോണം പോലെയാകാം അതാണ് നിങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ട വിമാനം ഏതാണ് തകർന്നത് എന്നാൽ ഇവ മാത്രമാണ് തിരഞ്ഞെടുപ്പ് വിദ്യാർത്ഥി ഇല്ല ഇപ്പോൾ എനിക്ക് ഒരു ചതുരം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് ശരിയായ ആകൃതിയിൽ എത്ര വേണമെങ്കിലും ഒരു ദീർഘചതുരം ഉണ്ടായിരിക്കാം അതിനാൽ ഓരോ മൂലകത്തിനും അതിനുള്ളിൽ ചില ആകൃതി ഫംഗ്ഷനുകൾ ഉണ്ട് അതിനാൽ ഞങ്ങൾ അവയെ അടിസ്ഥാന ഫംഗ്ഷനുകൾ എന്ന് വിളിക്കുന്നത് നിർത്തും ഞങ്ങൾ അവയെ ഷേപ്പ് ഫംഗ്ഷനുകൾ എന്ന് വിളിക്കാൻ തുടങ്ങും അങ്ങനെ നിങ്ങൾ സാഹിത്യം വായിക്കുമ്പോൾ അത് ശരിയാകും ഉദാഹരണത്തിന് ഞാൻ ഇവിടെ 1D ലൈൻ സെഗ്മെന്റ് എടുത്തപ്പോൾ ഇതിന് 2 ആകൃതി ഫംഗ്ഷനുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ത്രികോണം എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 3 ഷേപ്പ് ഫംഗ്ഷനുകൾ ആയിരിക്കും അപ്പോൾ 3 ആകൃതി ഫംഗ്ഷനുകൾ എങ്ങനെ ശരിയാണെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യും അതിനാൽ ഓരോ നോഡിലും ഒരെണ്ണം അടിസ്ഥാനപരമായി ശരിയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നാല് ആകൃതി ഫംഗ്ഷനുകൾ സങ്കൽപ്പിക്കാൻ കഴിയും അതിനാൽ ഞങ്ങൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആകാര പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നതിലൂടെ അജ്ഞാതമായതിനെ മാതൃകയാക്കുന്നതിന് ഞങ്ങൾ കൂടുതൽ കൂടുതൽ വഴക്കം കൊണ്ടുവരുന്നു എന്നതാണ് അതിനാൽ 2 ഡിയുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഇതാണ് ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കൂ ഇവിടെ ഞാൻ അജ്ഞാതമായവയെ ഈ നോഡുകളിലെ ഫംഗ്ഷന്റെ മൂല്യങ്ങളാക്കി മാറ്റുന്നു അതാണ് ഞാൻ 1D യിൽ ചെയ്തതിന്റെ നേരായ വിപുലീകരണം 1D യിൽ എന്റെ അജ്ഞാതങ്ങൾ ഈ നോഡുകൾ ആയിരുന്നു അതിൽ നിന്നാണ് ഞാൻ ഈ ആകൃതി ഫംഗ്ഷനുകൾ നിർവചിക്കുന്നത് ശരി എല്ലാം നല്ലതാണ് എനിക്ക് ആ ആശയം ഇവിടെ തുടരാം കൂടാതെ നോഡുകൾ റൈറ്റ് നോഡുകൾ നോഡ് മൂല്യങ്ങൾ അജ്ഞാതമാണെന്ന് പറയാം ഷേപ്പ് ഫംഗ്ഷനുകൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് അടുത്ത സ്ലൈഡിൽ കാണാം എന്നാൽ അവബോധജന്യമായ ആശയ നോഡുകൾ അജ്ഞാതമാണെന്ന് നിങ്ങൾക്ക് ലഭിക്കും അവർ മറ്റേതെങ്കിലും തരത്തിലുള്ള അജ്ഞാതർ ആയിരിക്കുമോ സെന്റർ പോയിന്റ് ശരിയാണ് പക്ഷേ അതും അജ്ഞാതമാണ് അതിനാൽ ഞാൻ മറ്റൊരു രീതിയിൽ ചോദ്യം ചോദിക്കട്ടെ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ അടിസ്ഥാനപരമായി വെക്റ്റർ സമവാക്യങ്ങളാണ് അതിനാൽ എന്റെ അജ്ഞാതർ യഥാർത്ഥത്തിൽ വെക്റ്ററുകളാണ് പക്ഷേ ഞാൻ അവയെ സ്കെയിലർ നോഡുകളുടെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ദിശയ്ക്ക് എന്ത് സംഭവിക്കും അതിനാൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് xy വിമാനത്തിലാണെന്ന് എനിക്ക് പറയാം അതിനാൽ എടുക്കാം എന്നത് x y യുടെ പ്രവർത്തനമാണ് അതിനാൽ ഒരു സ്കെയിലറിന്റെ മൂല്യമുണ്ട് എന്നാൽ ഒരു യഥാർത്ഥ വെക്റ്റർ ഫീൽഡിനെ പ്രതിനിധീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തുചെയ്യും കാരണം ഉദാഹരണത്തിന് ഈ സാഹചര്യത്തിൽ H വിമാനത്തിലാണ് TM ധ്രുവീകരണത്തിൽ H എന്നത് വിമാനത്തിലെ ഒരു വെക്ടറാണ് വിമാനത്തിലെ H വെക്ടറിനെ പ്രതിനിധീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക നമുക്ക് നോഡുകൾ ഉപയോഗപ്രദമാകുമോ നോഡ് എന്നെ സഹായിക്കാൻ പോകുന്നില്ല അതിൽ നിന്ന് എനിക്ക് എങ്ങനെ ദിശാബോധം ലഭിക്കും അത് എനിക്ക് ഒരു മൂല്യം നൽകുന്നു അത് എനിക്ക് ശരിയായ ദിശ നൽകുന്നില്ല അതിനാൽ ഇവയാണ് ഞങ്ങൾ നോക്കിയത് കാരണം ഇവ നോഡ് അടിസ്ഥാനമാക്കിയുള്ള ഘടകങ്ങളാണ് എഡ്ജ് ബേസ്ഡ് എലമെന്റുകൾ എന്ന് വിളിക്കപ്പെടുന്നവയെ നിർവ്വചിക്കാനും സാധിക്കും അതിനാൽ എഡ്ജ് അടിസ്ഥാനമാക്കിയുള്ള ഘടകങ്ങൾ ഞങ്ങൾ നോഡ് അധിഷ്ഠിതവും എഡ്ജ് അധിഷ്ഠിത ഘടകങ്ങളും നോക്കും മൂലകത്തിന്റെ ആകൃതി അതേപടി തുടരും ത്രികോണം ശരി ഇപ്പോൾ ഇവിടെ അജ്ഞാതമായത് ഒരു നിശ്ചിത അരികിലുള്ള വെക്ടറിന്റെ മൂല്യമായി മാറുന്നു അതിനാൽ ഇത് ഇപ്പോൾ അൽപ്പം അമൂർത്തമായി തോന്നിയേക്കാം പക്ഷേ അത് വ്യക്തമായി നിർമ്മിക്കും എല്ലാം അത് പ്രവർത്തിക്കും എന്നാൽ അടിസ്ഥാനപരമായി ഞാൻ അർത്ഥമാക്കുന്നത് ഈ വെക്ടറിന്റെ വ്യാപ്തിയാണ് ഇപ്പോൾ എനിക്കറിയാത്തതെങ്കിൽ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ആശയമാണ് അതിനാൽ ഇത് ഈ വെക്ടറിന്റെ വ്യാപ്തിയാണെങ്കിൽ എനിക്ക് കുറഞ്ഞത് ഒരു ദിശയിൽ ചില അരികുകളിൽ ശരിയാക്കാൻ കഴിയും അതുപോലെ ഈ 3 അരികുകൾക്കും ഇവിടെ ചില സമയങ്ങളിൽ എനിക്ക് ഫീൽഡ് കണ്ടെത്തണമെങ്കിൽ അത് ഈ 3 വെക്റ്ററുകളെ അടിസ്ഥാനമാക്കിയുള്ള എന്തെങ്കിലും രേഖീയ സംയോജനമായിരിക്കും അതിനാൽ ബഹിരാകാശത്തിലെ ഓരോ പോയിന്റിലും എനിക്ക് സഹകരിക്കാൻ കഴിയും ഒരു ദിശ ശരിയാണ് അതിനാൽ ഇത് വീണ്ടും ഒരു പുതിയ ആശയമാണ് അതിനാൽ ഞങ്ങൾ വിശദമായി പഠിക്കും പക്ഷേ നോഡ് അടിസ്ഥാനമാക്കിയുള്ള ഘടകങ്ങളും എഡ്ജ് അടിസ്ഥാനമാക്കിയുള്ള ഘടകങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എഡ്ജ് അധിഷ്ഠിത ഘടകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നോഡ് അധിഷ്ഠിത ഘടകങ്ങൾക്ക് സാധാരണയായി പരിമിതമായ കൃത്യതയുണ്ട് വെക്ടറുകളെക്കുറിച്ചും ദിശകളെക്കുറിച്ചും വളരെ ശ്രദ്ധാലുവായിരിക്കേണ്ട എഡ്ജ് അടിസ്ഥാനമാക്കിയുള്ള ഘടകങ്ങൾ ശരിയാണ് വിദ്യാർത്ഥി പിന്തുണയ്ക്കുന്നതിനെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത് വളരെ നല്ല ചോദ്യം അതിനാൽ എനിക്ക് ഇതുപോലുള്ള 2 ഘടകങ്ങൾ ഉണ്ടെന്ന് കരുതിയാൽ എന്ത് സംഭവിക്കുമെന്ന് അവനോട് ചോദിക്കുന്നു 1D യുടെ കാര്യത്തിൽ എനിക്ക് 2 ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് സമാനമാണ് ഇവിടെ ഈ നോഡിന്റെ മൂല്യം പ്രശ്നമല്ല കാരണം ഷേപ്പ് ഫംഗ്ഷൻ അതിന്റെ മൂല്യം എടുത്തുവെന്ന് കരുതുക ഇവിടെയാണെങ്കിൽ അതിന് ഇവിടെ നിന്ന് താഴേക്ക് പോകാനും ഇവിടെയുള്ള ഏത് മൂല്യത്തിലേക്കും പോകാനും കഴിയും കാരണം ഈ നോഡ് മൂല്യം സ്ഥിരമായിരുന്നു അതുപോലെ ഇതിൽ അറ്റം രണ്ട് മൂലകങ്ങൾക്കും പൊതുവായതാണ് അതിനാൽ രണ്ട് ഘടകങ്ങൾക്കും ഇടയിൽ എഡ്ജ് ദിശ സ്ഥിരതയുള്ളതാണ് അതിനാൽ ഇടത് മൂലകത്തിൽ ഒരു ദിശയും വലത് മൂലകത്തിൽ മറ്റൊരു ദിശയും അതിന്റെ പങ്കിട്ട എഡ്ജ് ആണെന്നല്ല മുമ്പ് നിങ്ങൾക്ക് ഒരു പങ്കിട്ട നോഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പങ്കിട്ട എഡ്ജ് ഉണ്ട് അതിനാൽ ആ പങ്കിട്ട അരികിൽ ഫീൽഡിന്റെ ദിശ അദ്വിതീയമാണ് അങ്ങനെ മറിച്ചൊന്നും സംഭവിക്കുന്നില്ല വിദ്യാർത്ഥി രണ്ട് കണക്കുകൂട്ടലുകളും ഞങ്ങൾ വശത്ത് രണ്ട് അരികുകൾക്കിടയിലും അജ്ഞാതമായത് സാധാരണമായതിനാൽ പരിഗണിക്കും അതിനാൽ ഓരോ അരികിലും നിങ്ങൾക്ക് ഒരു ദിശ മാത്രമേ ലഭിക്കൂ എന്ന സമവാക്യങ്ങളുടെ സംവിധാനത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ ഈ വ്യക്തിക്ക് എവിടെയും ചൂണ്ടിക്കാണിക്കുന്ന അതിന്റേതായ മറ്റ് അരികുകൾ ഉണ്ടായിരിക്കും സംയോജിത രീതിയിൽ സംയോജിപ്പിച്ച് ഞാൻ സിസ്റ്റത്തിന്റെ എല്ലാ ഘടകങ്ങളും നോക്കുമ്പോൾ ഓരോ അരികിനും ഒരു അദ്വിതീയ ദിശ ഉണ്ടായിരിക്കും അതിനാൽ തമാശയായി തോന്നുന്ന ഏതൊരു വസ്തുവിന്റെയും മേൽ മറ്റ് വെക്ടറിൽ ഫീൽഡ് പ്രകടിപ്പിക്കുന്നതിന് അത് വളരെയധികം ശക്തി നൽകുന്നു വിദ്യാർത്ഥി സർ കൊള്ളാം ഞാൻ ഈ എഡ്ജ് എ എന്നും എഡ്ജ് ബി എന്നും എഡ്ജ് സി എന്നും വിളിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾ അർത്ഥമാക്കുന്നത് വിദ്യാർത്ഥി ശരി എയ്ക്കും ബിയ്ക്കും ഇടയിൽ ദിശയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടെന്ന് നിങ്ങൾ പറയുന്നു വിദ്യാർത്ഥി അതെ സമവാക്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കാരണം ഞാൻ ഈ ഭാരം കൂടിയ അവശിഷ്ട വ്യവസ്ഥ ചുമത്തുമ്പോൾ വിദ്യാർത്ഥി ഓ അത് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ അനുസരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ ഫീൽഡിന് ഇടയിൽ 2 അടുത്തുള്ള പോയിന്റുകളിൽ പെട്ടെന്ന് ഫ്ലിപ്പ് അനുവദിക്കില്ല എന്തെങ്കിലും മെറ്റീരിയലോ മറ്റെന്തെങ്കിലുമോ ഇല്ലെങ്കിൽ അതിനാൽ സമവാക്യങ്ങളുടെ സിസ്റ്റം എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ വ്യത്യാസപ്പെടേണ്ടതില്ല അതിനാൽ കുറഞ്ഞത് വൈദ്യുതകാന്തിക കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന അടിസ്ഥാന ഫംഗ്ഷനുകൾ എന്നാൽ വൈദ്യുതകാന്തികത എന്നത് വൈദ്യുതകാന്തിക സമൂഹമല്ല വാസ്തവത്തിൽ പരിമിതമായ ഘടകം ചെയ്യുന്ന ആദ്യത്തെ കമ്മ്യൂണിറ്റിയല്ല ആദ്യത്തെ കമ്മ്യൂണിറ്റി ഫ്ലൂയിഡ് മെക്കാനിക്സ് ആളുകൾ മെക്കാനിക്കൽ എഞ്ചിനീയർ എയറോസ്പേസ് എന്നിവരായിരുന്നു എഞ്ചിനീയർമാർ നിങ്ങൾ എഡ്ജ് അടിസ്ഥാനമാക്കിയുള്ള ഘടകങ്ങൾ എന്ന് വിളിക്കുന്നതും അവർ ഉപയോഗിക്കുന്നു അവിടെ എഡ്ജ് അടിസ്ഥാനമാക്കിയുള്ള ഘടകങ്ങൾ അല്പം വ്യത്യസ്തമാണ് അവ എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം അതിനാൽ ഫ്ലൂയിഡ് മെക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് ഇത് ഒരുതരം പൊതുവിജ്ഞാനമാണ് അവയുടെ അരികുകൾ ഞാൻ അർത്ഥമാക്കുന്നത് അവർക്ക് അരികുകൾ ഇഷ്ടമല്ല അവർ ആശങ്കപ്പെടുന്നത് ദ്രാവക പ്രവാഹം പോലെയാണ് ഒരു പ്രത്യേക ഇന്റർഫേസിലുടനീളം എത്ര ദ്രാവകം ഒഴുകുന്നു എന്നതിനെക്കുറിച്ച് അവർ ആശങ്കാകുലരാണ് അതിനാൽ അവയുടെ അടിസ്ഥാന മൂലകങ്ങളുടെ ആകൃതി ഫംഗ്ഷനുകൾ യഥാർത്ഥത്തിൽ ഇതുപോലെയാണ് കാണപ്പെടുന്നത് ഇവ മൂലകങ്ങൾക്കിടയിലുള്ള പൊതുവായ അല്ലെങ്കിൽ സംരക്ഷിത അളവുകളാണ് അരികിലേക്ക് സാധാരണമായ ഒരു വെക്റ്റർ അത് 2 ഘടകങ്ങൾക്കിടയിൽ പങ്കിടുന്നു അതിനാൽ ഇന്റർഫേസിൽ ഈ വെള്ളം ഒഴുകുന്നുവെങ്കിൽ ഇടതുവശത്ത് നിന്ന് എത്ര വന്നാലും അത് വലത്തേക്ക് പോകുന്നു അതിനാൽ ആ സംരക്ഷിത അളവ് ഈ പച്ച അമ്പടയാളമാണ് വൈദ്യുതകാന്തിക കേസിൽ ഈ അമ്പടയാളം മാക്സ്വെല്ലിന്റെ അതിർത്തി വ്യവസ്ഥകളുടെ ഏത് സ്വത്ത് ഉറപ്പാക്കുന്നു വിദ്യാർത്ഥി ടാൻജൻഷ്യൽ ടാൻജൻഷ്യൽ തുടർച്ച മൂലകങ്ങൾ തന്നെ രൂപകല്പന ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ അതിനെ നിർമ്മിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇത് സൌജന്യമായി ലഭിക്കും അതുപോലെ നിങ്ങൾ മറ്റൊരു നിർമ്മാണം നടത്തുന്നു നിങ്ങൾക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് കേസ് ലഭിക്കും സാധാരണ ഘടകം സംരക്ഷിക്കപ്പെടുന്നു അതിനാൽ നിങ്ങൾ ഇത് പരിഹാരമായി നിർമ്മിക്കുന്നു ഈ പ്രോപ്പർട്ടി ലഭിക്കുന്നതിന് നിങ്ങൾ അധികമായി എന്തെങ്കിലും ചെയ്യേണ്ടതില്ല അതെ ശരി അതിനാൽ ഈ എഡ്ജ് അധിഷ്ഠിത മൂലകങ്ങൾ നെഡെലെക് ശരി കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നാൽ ആദ്യം നമ്മൾ നോഡ് അടിസ്ഥാനമാക്കിയുള്ള മൂലകങ്ങളിൽ നിന്ന് ആരംഭിക്കും അതിനാൽ ഏറ്റവും ലളിതമായ നോഡ് അധിഷ്ഠിത അല്ലെങ്കിൽ എഡ്ജ് അധിഷ്ഠിത ഘടകത്തിന് ഏറ്റവും കുറഞ്ഞ വേരിയബിളുകളുടെ എണ്ണം നിലവിൽ 3 ആണ് ഓരോ ഘടകത്തിനും 3 അജ്ഞാതങ്ങളുണ്ട് അവ 3 തീർച്ചയായും ഉടനീളം പങ്കിടുന്നു വിദ്യാർത്ഥി സാർ ഡൊമെയ്നിൽ n ഘടകങ്ങൾ ഉണ്ടെങ്കിൽ എത്ര അജ്ഞാതർ ഉണ്ട് വിദ്യാർത്ഥി 3 ഇല്ല പല നോഡുകളും ശരിയായി പങ്കിട്ടതിനാൽ അവ 3 അജ്ഞാതർ ആയിരിക്കില്ല അതുപോലെ 1 ഡിയുടെ കാര്യത്തിലും എത്ര നോഡുകൾ ഒരു 1 2 3 4 5 6 7 ക്ഷമിക്കണം 6 ആണ് 6 നോഡുകൾ ഉണ്ട് അതിനാൽ അജ്ഞാതർ 6 മൂലകങ്ങളാണ് 5 5 ഘടകങ്ങൾ ഉണ്ട് വിദ്യാർത്ഥി 6 ഓരോ ഘടകത്തിനും 10 നോഡുകൾ വേണം എന്നാൽ അവയിൽ 1 2 3 4 പങ്കിടുന്നു അതിനാൽ ഏതാണ് എന്റെ എല്ലാം അതിനാൽ രണ്ട് അളവുകളുടെ കാര്യത്തിൽ സമാനമായ അക്കൌണ്ടിംഗ് സംഭവിക്കുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് ആദ്യ നോഡ് അടിസ്ഥാനമാക്കിയുള്ള ഘടകം വ്യക്തമായി നിർമ്മിക്കാം അതിനാൽ 2D ശരിയിലെ ആദ്യത്തെ ഓർഡർ നോഡ് അടിസ്ഥാനമാക്കിയുള്ള ഘടകമാണിത് അതിനാൽ ഞാൻ എന്റെ ത്രികോണം ശരിയാക്കുന്നു അതിനാൽ ഞാൻ ഈ നോഡ് 1 നോഡ് 2 എന്നും നോഡ് 3 എന്നും വിളിക്കാൻ പോകുന്നു അതിനാൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനാൽ ഞാൻ നിങ്ങളോട് അവസാന ഉത്തരം പറയാൻ പോകുന്നു ആളുകൾ ഇത് എങ്ങനെ കണ്ടുപിടിച്ചുവെന്ന് നിങ്ങൾ അത്ഭുതപ്പെടും പക്ഷേ നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾ കാണും ഇത് വളരെ ഗംഭീരമാണെന്ന് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ ത്രികോണത്തിനുള്ളിലെ ചില അനിയന്ത്രിതമായ പോയിന്റ് p നിർവചിക്കാൻ പോകുന്നു ശരി ആകൃതി ഫംഗ്ഷനുകളെക്കുറിച്ച് നടക്കുന്ന ഈ മുഴുവൻ ചർച്ചകളും ഈ ത്രികോണം ത്രികോണത്തിന് പുറത്തല്ല ഈ മൂലകത്തിന്റെ അല്ലെങ്കിൽ മൂലകത്തിന്റെ ആന്തരിക ഭാഗത്തേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ഓർമ്മിക്കുക നമുക്ക് ഇതിനെ സാങ്കൽപ്പിക പോയിന്റ് 3 നോഡുകളുമായി ബന്ധിപ്പിക്കാം ഇതാണ് എന്റെ പോയിന്റ് പി ശരി ഇപ്പോൾ ഞാൻ ത്രികോണം 1 ന്റെ വിസ്തീർണ്ണമായി എന്റെ ആദ്യ ആകൃതി ഫംഗ്ഷൻ നിർവ്വചിക്കുന്നു അപ്പോൾ എന്താണ് ത്രികോണം 1 ഇത് ത്രികോണത്തിന്റെ വിസ്തീർണ്ണത്തെ ത്രികോണത്തിന്റെ വിസ്തീർണ്ണം കൊണ്ട് ഹരിച്ചാൽ നിർവചനം ശരിയാണ് അതിനാൽ അതിനാലാണ് അതിന്റെ N 1 എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അതിനാൽ ഞാൻ 1 ഒഴിവാക്കുന്നു അതിനാൽ അതിന്റെ വിസ്തീർണ്ണം ഇതാണ് ഈ പ്രദേശം അതിനാൽ ഇപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷന്റെ ചില സവിശേഷതകൾ നോക്കാം അതിനാൽ x y യുടെ ഒരു ഫംഗ്ഷൻ ആയി ഇത് x y യുടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും കാരണം x y എവിടെ നിന്നാണ് വരാൻ പോകുന്നത് ഇത് ഈ പോയിന്റിന്റെ കോർഡിനേറ്റുകളാണ് P നോഡ് ലൊക്കേഷനുകൾ ഉറപ്പിച്ചിരിക്കുന്നു P ഉള്ളിൽ എവിടെയും കറങ്ങാൻ കഴിയും കാരണം P എന്റെ ഫംഗ്ഷനു ചുറ്റും കറങ്ങുന്നത് ഇപ്പോൾ 2 ഡൈമൻഷണൽ ഫംഗ്ഷനാണ് കോർഡിനേറ്റുകൾ ഇവിടെ വരും ശരി നോഡ് 1 ൽ അതിന്റെ മൂല്യം എന്താണ് വിദ്യാർത്ഥി 1 നോഡ് 2 ലും 3 0 ലും ത്രികോണത്തിൽ വീഴുന്നു അതിനാൽ ഇത് ആദ്യ ഓർഡർ കേസിന്റെ ലാഗ്രാഞ്ച് പോളിനോമിയൽ പോലെയാണ് ഇതിന് അതിന്റെ സ്വന്തം സ്ഥാനത്ത് 1 മൂല്യവും മറ്റ് നോഡിൽ 0 ഉം ഉണ്ട് അതുപോലെ ഈ ഫംഗ്ഷന് ഒരു നിശ്ചിത നോഡിൽ അതിന്റെ മൂല്യം 1 ഉണ്ട് 0 എല്ലാവർക്കും ശരി നോഡ് 2 3 മാത്രമല്ല 2 മുതൽ 3 വരെ വിദ്യാർത്ഥി 0 ഇപ്പോഴും 0 ശരിയാണ് അതിനാൽ ഇത് ഒരു കൂടാരം പോലെയാണ് വലതുവശത്ത് കൂടാരത്തിന് ഇവിടെ കുറച്ച് ഉയരമുണ്ട് ഞാൻ ചിന്തിച്ചാൽ ഇതുപോലെ തോന്നുന്നു അതിന്റെ മൂല്യം 1 ഇവിടെയുണ്ട് ഇവിടെ ഇത് 1 ആണ് അത് ഈ 2 പോയിന്റുകളിൽ 0 ലേക്ക് പോകുന്നു അത് തുടരുന്നു 2 ശരിയാകുന്നതുവരെ ഈ മുഴുവൻ അരികിലും 0 ഇപ്പോൾ ഇത് ഏത് തരത്തിലുള്ള പ്രവർത്തന രൂപമാണെന്ന് നിങ്ങൾ കരുതുന്നു ഇത് സ്ഥിരമായ രേഖീയ ക്വാഡ്രാറ്റിക് ആണോ അതെന്താണ് ഇത് x y എന്നിവയിൽ രേഖീയമായിരിക്കണം അതിനാൽ അടുത്തിടെയുള്ള ഹൈസ്കൂൾ ഹെറോണിന്റെ ഫോർമുല എന്തുതന്നെയായാലും അത് ശരിയാണോ അത് ഉപയോഗിക്കാം അതിനാൽ ത്രികോണ ഫോർമുലയുടെ വ്യക്തമായ വിസ്തീർണ്ണം ഞാൻ എഴുതാം അത് ത്രികോണത്തിന്റെ വിസ്തീർണ്ണത്തിന്റെ സൂത്രവാക്യം മാത്രമാണ് അതിനാൽ ഇവിടെ സ്ഥിരതയുള്ള ഒരു കൂട്ടം ഉണ്ട് എന്റെ ജ്യാമിതി ലഭിച്ചുകഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് ത്രികോണങ്ങൾ ഉണ്ടാക്കി അതിനാൽ നോഡ് ലൊക്കേഷനുകൾ ഇവയെല്ലാം നിശ്ചയിച്ചിരിക്കുന്നു ഈ എല്ലാ നമ്പറുകളും അതിനാൽ ഡിനോമിനേറ്റർ വിസ്തീർണ്ണത്തിന്റെ ഇരട്ടിയാണ് എന്നതിനാൽ എനിക്ക് ഇത് തിളപ്പിക്കുക അതിനാൽ ഇത് x y എന്നിവയിലെ ഒരു നല്ല വൺ ഡൈമൻഷണൽ ഫംഗ്ഷനാണെന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഞാൻ എന്തായി നിർവചിക്കണമെന്ന് എനിക്ക് നിർവചിക്കാം ത്രികോണം 2 ത്രികോണം ഇത് ഏരിയയുടെ വിസ്തീർണ്ണം ശരിയാണ് കൂടാതെ സമാനമായ പ്രദേശം ശരിയാകും അതിനാൽ ഈ 3 ആകൃതി ഫംഗ്ഷനുകളും ലീനിയർ ഫംഗ്ഷനുകളാണ് ശരി അതിനാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ജ്യാമിതീയ ചിത്രം എന്താണ് എന്റെ പ്രവർത്തനത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് അതിനാൽ ഞാൻ ഇവിടെ കാണിച്ചുതന്ന ഈ ദൃശ്യവൽക്കരണം നോഡ് 2 3 ലും 2 3 നെ ബന്ധിപ്പിക്കുന്ന രേഖയിലും എത്തുമ്പോഴേക്കും നോഡ് 1 ലും 0 ലും ഉയരം 1 ഉള്ള ഒരു കൂടാരം പോലെയുള്ള ഒരു കൂടാരം പോലെ നിങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നു അതെ അതിനാൽ x അല്ല x y എങ്ങനെയിരിക്കും നിങ്ങൾക്ക് ഇത് ദൃശ്യവൽക്കരിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് എങ്ങനെയിരിക്കും വിദ്യാർത്ഥി അതിനു മുകളിലൂടെ പ്രതലം ഒരു ടെന്റ് പോലെയുള്ള ഒരു പ്രതലം വീണ്ടും ഒരു ടെന്റ് പോലെയും സ്റ്റാൻഡിന്റെ ഉയരം 1 2 ഉം 3 ഉം ആണ് അതിനാൽ ഞാൻ എന്റെ അതിശയകരമായ ഡ്രോയിംഗ് കഴിവുകൾ ഉപയോഗിക്കാൻ പോകുകയാണെങ്കിൽ അത് ആൽഫയും ഗാമയും ബീറ്റയും ആയിരിക്കും ഇവിടെ ഈ ഉയരങ്ങളിൽ നിർത്തിയിരിക്കുന്ന ഒരു പ്രതലംമാണിത് അതിനാൽ നിങ്ങൾ അടുത്തുള്ള ഘടകങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും അതിനാൽ ഇത് 1 ത്രികോണമാണ് ഉദാഹരണത്തിന് ഇവിടെ മറ്റൊരു ത്രികോണം ഉണ്ടാകും ഇതിന് കുറച്ച് മൂല്യമുണ്ടെന്ന് നമുക്ക് പറയാം അതിനാൽ രണ്ടാമത്തെ ത്രികോണം പരിഗണിക്കുമ്പോൾ അതിന്റെ ഉയരം എന്തായിരിക്കും അത് എങ്ങനെയായിരിക്കും വിദ്യാർത്ഥി ഉണ്ടായിട്ടുണ്ട് ഇത് ഇവിടെ നിന്ന് ഇതുപോലെ മറ്റൊരു കൂടാരം പോലെ പോകും പക്ഷേ ഇതിനൊപ്പം അതിന്റെ മൂല്യം സംരക്ഷിക്കപ്പെടും ഈ 2 ടെന്റുകളൊന്നും ഉണ്ടാകില്ല ഒരേ വരിയിൽ വന്നു ചേരും ഇവിടെ ഒരു ചാട്ടവും ഉണ്ടാകില്ല കാരണം ഞങ്ങൾ ഇത് നിർമ്മിച്ച രീതി കാരണം ആൽഫയിൽ സംഭവിക്കുന്നതെന്തും ഇതിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു കാരണം നിങ്ങൾ ഇവിടെ വരുമ്പോഴേക്കും ഇതിന് അനുയോജ്യമായ ആകൃതിയുടെ പ്രവർത്തനം 0 ആയി മാറും അതുപോലെ ഇവിടെ നടക്കുന്നതെന്തും ഇതിൽ സ്വാധീനം ചെലുത്തുന്നില്ല അതിനാൽ ഈ വരിയിൽ നിന്ന് ഇത് പൂർണ്ണമായും കണ്ടെത്തുന്നത് കൂടാതെ ഈ രണ്ട് മൂലകങ്ങൾക്കും പൊതുവായുള്ളതാണ് അതിനാൽ എനിക്ക് തുടർച്ചയായ ഒരു സുഗമമായ ഫംഗ്ഷൻ ലഭിച്ചു അതായത് ഇത് ഒരു തുടർച്ചയായ ഫംഗ്ഷൻ ആണെന്ന് അർത്ഥമാക്കുന്നത് ഇത് വ്യത്യസ്തമാക്കാൻ കഴിയില്ല കാരണം നമുക്ക് അതിന്റെ 2 വരികൾ കൂടിച്ചേരുന്നത് ഇവിടെ കാണാം അതിനാൽ വ്യത്യസ്തത അവിടെയില്ല അവർ കണ്ടുമുട്ടിയില്ലെങ്കിലും വിദ്യാർത്ഥി ഒരേ വരി ഒരേ വരി പൊതുവായ അറ്റം വിദ്യാർത്ഥി കോമൺ എഡ്ജ് കൂടാതെ വിദ്യാർത്ഥി ഇവിടെ ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നില്ല ഇല്ല നിങ്ങളുടേത് വിചാരിച്ചാൽ അത് ശരിയാകില്ല അതിനാൽ നമുക്ക് ഈ ശരിയിലൂടെ ഒരു വീക്ഷണം എടുക്കാം അതിനാൽ ഇത് നിങ്ങളുടെ ഒരു അറ്റം ഇതുപോലെയാണ് മറ്റേ അറ്റം ഇങ്ങനെയാണ് വരുന്നത് വിദ്യാർത്ഥി മൂന്നാമന് കഴിയും മൂന്നാമത്തേതിന് ഈ ലൈനിൽ സ്വാധീനമില്ല അതിനാൽ ഇത് എന്റെതായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഈ ദിശയിലേക്ക് നോക്കുന്നു ഇതായിരുന്നു എന്റെ ഉയരം ഇതായിരുന്നു എന്റെ ഉയരം ഈ 2 പേരും ഒരേ പോയിന്റിൽ കണ്ടുമുട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ ഒരു മാർഗവുമില്ല കാരണം ഇവിടെ നടക്കുന്നതെന്തും ഇവിടെ കളിക്കാൻ ഒരു പങ്കുമില്ല ഇവിടെ നടക്കുന്നതെന്തും ഇവിടെ കളിക്കാൻ നിയമമില്ല ഇവിടെയുള്ള ഈ വരിയുടെ ഉയരത്തിന്റെ മൂല്യം പൂർണ്ണമായി നിശ്ചയിച്ചിരിക്കുന്നു ഒപ്പം അതിനാൽ നിങ്ങൾക്ക് തുടർച്ച സൌജന്യമായി ലഭിക്കുന്നു ഒപ്പം പങ്കിട്ട നോഡുകളുമാണ് വിദ്യാർത്ഥി അതെ 2 ഘടകങ്ങൾക്ക് അതിനാൽ അവർക്ക് ഒരു പ്രത്യേക മൂല്യമില്ലെന്ന് അവർ പങ്കിട്ടു അതിനാൽ ഇത് വളരെ നല്ല തുടർച്ച പ്രോപ്പർട്ടി അടിസ്ഥാന ഫംഗ്ഷനിൽ നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ എനിക്ക് ലഭിക്കുന്ന പരിഹാരവും അനുസരിക്കുന്നു